ബ്ലാക്ക് ബോഡി റേഡിയേഷൻ VII ക്വാണ്ടം സിദ്ധാന്തവും പ്ലാങ്കിന്റെ ഡിസ്ട്രിബൂഷൻ ഫോർമുലയും 2 ഫോർമുല ഉണ്ടെന്ന് നമ്മൾ കണ്ടു റെയ്ലീ ജീൻസിന്റെയും വീനിന്റെയും ഫോർമുല നമ്മുക്ക് റേഡിയേഷൻ ഡെൻസിറ്റി തരുന്നു ഇത് നിങ്ങൾക്ക് uν 8πν³KTc³ നൽകുന്നു ഇത് നിങ്ങൾക്ക് uν α ν³ e⁻ᵝᵛᴷᵀ ഒപ്പം കർവ് ഒരു പരിധിയിലോ മറ്റേതെങ്കിലുമോ രണ്ടറ്റവും യോജിക്കാത്തതിനാൽ സത്യം അതിനിടയിൽ എവിടെയോ ആണ് ഇതു പരിഹരിക്കാൻ uν 8πv³Ec എന്നാ രൂപത്തിലായിരിക്കണം ഇതാണ് ശരിയായ ഫോർമുല ഈ ഫോർമുല കൃത്യമായ രീതിയിൽ ഉരുത്തിരിഞ്ഞതാണ് അതിനാൽ നമുക്ക് വേണ്ടത് Eν ആണ് ഇത് റായ്ലേയ ജീൻസ് അനുസരിച്ച് k T ആണ് വെയ്ൻ അനുസരിച്ച് νe⁻ᵝᵛᵏᵗ ആനുപാതികമാണ് സത്യം അതിനിടയിൽ എവിടെയോ ആണ് അതിനാൽ ഇത് ക്വാണ്ടം സിദ്ധാന്തത്തിലൂടെ പരിഹരിക്കപ്പെടുന്നു ഒരു ഓസിലേറ്ററിന് എനെർജിയുടെ തുടർച്ചയായ വിതരണം സാധ്യമല്ല എന്നാൽ h ν യൂണിറ്റുകളിൽ എനർജി എടുക്കാൻ കഴിയുമെന്ന് അത് പറയുന്നു h ചില സ്ഥിരതയാണ് അതിനാൽ ഫ്രീക്വൻസി nu ഉള്ള ഒരു ഓസിലേറ്ററിന്റെ എനർജി 0 h ν 2 h ν 3 h ν എന്നിങ്ങനെ ആകാം എന്നാൽ ക്ലാസിക്കൽ ആയി തുടർച്ചയായി കഴിയില്ല നമ്മൾക്ക് തുടർച്ചയായ വിതരണം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് തുടർച്ചയായി കഴിയില്ല റേഡിയേഷന്റെ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ വിതരണത്തിനായുള്ള ശരിയായ ഫോർമുല അല്ലെങ്കിൽ പ്ലാങ്കുകളുടെ ഫോർമുലplancks formulaലഭിക്കുന്നതിന് ഇത് എങ്ങനെ സഹായിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഒരു ഓസിലേറ്ററിന് T താപനിലയിൽ nhν എനർജിയും ഉണ്ടെന്ന് കരുതുക അതിന് nhν എനർജി ഉണ്ടാകാനുള്ള സാധ്യത e⁻ⁿʰᵛᴷᵀ ന് ആനുപാതികമാണ് അത് ആനുപാതികമായ സംഭാവ്യതയാണ് അതിനാൽ പ്രോബബിലിറ്റി e⁻ⁿʰᵛᴷᵀ∑∞ₙ₌₀e⁻ⁿʰᵛᴷᵀ തുല്യമായിരിക്കും എനർജി ഇൻഫിനിറ്റി I ലേക്കുള്ള എല്ലാ വഴിയും ആയിരിക്കാംഅത് 0 മുതൽ ആരംഭിക്കുന്നു ഇതാണ് പ്രൊബേബിലിറ്റി അത് e⁻ⁿʰᵛᴷᵀ എന്നതിന് ആനുപാതികമാണ് ഞാൻ ഇത് നോർമലൈസ് ചെയ്തു ഏതെങ്കിലും മൂല്യം ഉണ്ടാകാനുള്ള സാധ്യത ഒന്നായിരിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കുറച്ച് എനർജി ശരി അതിനാൽ ഇപ്പോൾ പ്രൊബേബിലിറ്റി e⁻ⁿʰᵛᴷᵀ1 e⁻ʰᵛᴷᵀ എന്ന് എഴുതാൻ കഴിയുന്ന അതിനാൽ ശരാശരി എനർജി Eν എനർജി ∑∞ₙ₌₀nhve⁻ⁿʰᵛᴷᵀ1 eʰᵛᴷᵀ ആയിരിക്കും അതിനാൽ ഞാൻ ഇത് 11 e⁻ʰᵛᴷᵀ∑∞ₙ₌₀nhve⁻ⁿʰᵛᴷᵀ എന്ന് എഴുതാൻ പോകുന്നു എനിക്ക് ഇത് വിലയിരുത്തേണ്ടതുണ്ട് നമുക്ക് അത് ചെയ്യാം അതിനാൽ ∑∞ₙ₌₀nhve⁻ⁿʰᵛᴷᵀ കണക്കുകൂട്ടാൻ ഞാൻ ഇത് β1KT എന്ന് എഴുതാൻ പോകുന്നു അതിനാൽ ഞാൻ ഇത് എഴുതാൻ പോകുന്നത് ∑∞ₙ₌₀nhνe⁻ᵝⁿʰᵛ എന്നാണ് ഇവിടെ β1kT എന്ന് എഴുതാൻ പോകുന്നു ഇത് ddβ11 e⁻ᵝʰᵛ എന്ന് എഴുതാം എന്നാൽ ഈ തുക ഇപ്പോൾ നമ്മൾ ചെയ്തു അതിനാൽ ഇതാണ് ddβ11 e⁻ᵝʰᵛ ഈ ഊർജ്ജങ്ങൾക്കു പോലും ν ഫ്രീക്വൻസിയിലുള്ള ഓസിലേറ്ററിന്റെ ശരാശരി എനർജി കണക്കാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഓസിലേറ്ററിന് എനർജി nhν ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം ബോൾട്ട്സ്മാൻ അനുസരിച്ച് അതിന് എനർജി nhν ഉണ്ടായിരിക്കാനുള്ള സാധ്യത e⁻ⁿʰᵛᵏᵀ ന് ആനുപാതികമാണ് അവിടെ T താപനിലയാണ് അതിനാൽ പ്രോബബിലിറ്റി സ്വയം e⁻ⁿʰᵛᵏᵀ∑∞ₙ₌₀e⁻ⁿʰᵛᵏᵀ ആയിരിക്കും ഇപ്പോൾ ഞങ്ങൾ എല്ലാം നോർമലൈസ് ചെയ്തു ശരി ഇപ്പോൾ ∑ ∞ₙ₌₀e⁻ⁿʰᵛᵏᵀ 11 e⁻ʰᵛᵏᵀ തുല്യമാണ് eʰᵛᵏᵀeʰᵛᵏᵀ 1 അങ്ങനെ ഞങ്ങൾ കണക്കാക്കി അതിനാൽ ശരാശരി എനർജി Eν ∑∞ₙ₌₀nhv x പ്രോബബിലിറ്റി nhν എന്നതിന് തുല്യമായിരിക്കും അതിനാൽ അതിന് nhν എനർജി ഉള്ളതിന്റെ പ്രോബബിലിറ്റി കൊണ്ട് ഗുണിക്കുക തുടർന്ന് സംഗ്രഹിക്കുക അതിനാൽ ഇത് തുല്യമായി പുറത്തുവരുന്നു അതിനാൽ നമുക്ക് ഇപ്പോൾ ഇത് കണക്കാക്കാം ഇത് ചെയ്യുന്നതിന് ഞാൻ ഒരു ട്രിക്ക് ∑ nhν e ചെയ്യുന്നു ഞാൻ ∑ nhνe⁻ᵝⁿʰᵛ എന്ന് എഴുതുന്നു അവിടെ β1kT ഇത് ddβ∑e⁻ᵝⁿʰᵛ എന്ന് എഴുതാം എന്നാൽ ഇത് ഞങ്ങൾ കണക്കാക്കിയിട്ടുണ്ട് ഇത് ddβ11 e⁻ᵝʰᵛ ആയി വരുന്നു അത് പിന്നീട് 11 e⁻ᵝʰᵛ²e⁻ᵝʰᵛhv ന് തുല്യമാണ് ശരി അതിനാൽ ഇത് തുല്യമാണ് വരെ അതിനാൽ പുറത്തുവരുന്നത് hve⁽ʰᵛᵏᵀ⁾ 1 അതിനാൽ ക്വാണ്ടം സിദ്ധാന്തവും ബോൾട്ട്സ്മാൻ പ്രോബബിലിറ്റിയും ഉപയോഗിച്ച് ഓസിലേറ്ററിന്റെ ശരാശരി എനർജി hveʰᵛᵏᵀ 1 ആണെന്നും അതിനാൽ uν 8πv³c³hveʰᵛᵏᵀ 1 ആകുമെന്നും നമ്മൾ കണ്ടെത്തി നോക്കുക അത് 8πhv³c³1e⁽ʰᵛᵏᵀ⁾ 1 ആകുന്നു നോക്കുക uᵥ എന്നത് ν³fvT എന്ന രൂപത്തിൽ ആണ് അത് നമ്പർ 1 ആണ് നമ്പർ 2 vT→∞ അത് വളരെ വലുതോ ചെറുതോ ആയ λ ആണെങ്കിൽ eʰᵛᵏᵀ 1 എന്നത് eʰᵛᵏᵀ എന്നതിലേക്ക് പോകും കൂടാതെ uν 8πhv³c³e⁻ʰᵛᴷᵀ ആകുകയും ചെയ്യും ഇത് വൈയ്ൻ ന്റെ സൂത്രവാക്യമാണ്Wiens equation vT→0 വളരെ ചെറുതാണെങ്കിൽ eʰᵛ ᵏᵀ→1hvkT uν എന്നിവ 8πv³c³kT ലേക്ക് പോകുന്നു അത് റെയ്ലീ ജീൻസ്ആണ് അതിനാൽ ക്വാണ്ടം സിദ്ധാന്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ ഫോർമുല വിയന്റെ ഫോർമുലയിലേക്കുംWiens formula റെയ്ലീ ജീനിന്റെ സൂത്രവാക്യത്തിലേക്കും ശരിയായി പോകുന്നു ശരിയായ പരിധിയിലുള്ള ഫോർമുല uν8πhv³c³1eʰᵛᵏᵀ 1 പരീക്ഷണങ്ങൾക്ക് അനുയോജ്യമാണ് അതിനാൽ ഇതാണ് സ്പെക്ട്രൽ ഡെൻസിറ്റിയ്ക്കും അതിനുമുള്ള ഫോർമുല ക്വാണ്ടം സിദ്ധാന്തം സ്ഥിരീകരിക്കുന്നു അതായത് ν ഫ്രീക്വൻസിയിലുള്ള ഓസിലേറ്ററിന് hν യൂണിറ്റുകളിൽ മാത്രമേ എനർജി എടുക്കാൻ കഴിയൂ അപ്പോൾ സ്റ്റെഫാൻ ബോൾട്ട്സ്മാന്റെ നിയമത്തെക്കുറിച്ചോ അതിനാൽ നമുക്ക് ∫ uνdν സംയോജിപ്പിക്കാം അത് ∫₀∞8πhv³c³1e⁽ʰᵛᵏᵀ⁾ 1dv ആയി മാറുന്നു പകരം vT x അപ്പോൾ ഈ ഫോർമുല ∫₀ ∞8πhT³x³c³1eʰˣᵏTdx ആയി മാറുന്നു അത് മറ്റൊന്നുമല്ല 8πhT⁴c³∫₀∞x³1e⁽ʰᵛᵏᵀ⁾dx ഇത് T⁴ ന് പ്രൊപോഷണൽ ആണ് കൂടാതെ സ്റ്റെഫാൻ ബോൾട്ട്സ്മാൻ കോഫിഫിഷ്യന്റിനുള്ള കോഫിഫിഷ്യന്റ് നിങ്ങൾക്ക് നിർണ്ണയിക്കാനാകും അതിനാൽ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാൻ റെയ്ലീ ജീൻ ഫോർമുലയും വീനിന്റെ ഫോർമുലയുംWiens formula ക്വാണ്ടം സിദ്ധാന്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ശരിയായ ഫോർമുലയുടെ 2 പരിധികളാണ് അതിനാൽ ഇപ്പോൾ മുതൽ ഒരു ഓസിലേറ്ററിന്റെ ഊർജ്ജ നിലകൾ കണക്കാക്കിയതായി നമ്മൾ അനുമാനിക്കുന്നു ക്വാണ്ടൈസേഷനുള്ള മറ്റ് തെളിവുകൾ എന്തെല്ലാമാണ് എന്ന് അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ കാണും റേഡിയേഷനും ക്വാണ്ടൈസ് ചെയ്യണം കൂടാതെ മെക്കാനിക്കൽ ഓസിലേറ്ററുകൾ ക്വാണ്ടൈസ് ചെയ്യണം ഇതെല്ലാം ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് ഈ സിദ്ധാന്തം കൂടുതൽ വിപുലീകരിക്കാൻ കഴിയും ഇതുവരെ ഞങ്ങൾ എലെക്ട്രോമാഗ്നെറ്റിക് ഓസിലേറ്ററുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ റേഡിയേഷൻ പുറപ്പെടുവിക്കുന്ന ആ ഓസിലേറ്ററുകൾ ക്വാണ്ടൈസ് ചെയ്യപ്പെടുന്നു മെക്കാനിക്കൽ ഓസിലേറ്ററുകളും ക്വാണ്ടൈസ് ചെയ്യപ്പെടുകയും കുറഞ്ഞ താപനിലയിൽ ഖരവസ്തുക്കളുടെ പ്രത്യേക താപത്തിന്റെ സ്വഭാവം വിശദീകരിക്കുകയും ചെയ്യും അതിനാൽ ക്വാണ്ടൈസേഷന്റെ തെളിവുകൾ കൂടുതൽ ശക്തവുമാവുകയും പിന്നീട് അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും